ഡ്രെയിൻ ഫീഡ്ബാക്കോടുകൂടിയ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ C1 C2 എന്നിവയുടെ മൂല്യങ്ങൾ കണക്കാക്കുമ്പോൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നീ ആശയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു ഇപ്പോൾ യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയറിലേക്ക് മടങ്ങാം ആദ്യത്തേത് ഗേറ്റ് സോഴ്സിനെ ബയാസ് ചെയ്യിക്കുന്നതിന് നമ്മൾ റെസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തതും കൂടാതെ ഡ്രെയിനിനെ ബയാസ് ചെയ്യിക്കുന്നതിന് ഫീഡ്ബാക്ക് റെസിസ്റ്റർ RD ഉപയോഗിച്ചതും ആണ് അതിനാൽ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജമാക്കുന്നു C1 വഴി നമ്മൾ ഇവിടെ ഇൻപുട്ട് പ്രയോഗിക്കുകയും C2 വഴി ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്നു ഇത് VDD ആണ് അതിനർത്ഥം ആ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ VDD മൂല്യത്തിന്റെ സപ്ലേ വോൾട്ടേജ് ഉണ്ടാകും എന്നാണ് അതിനാൽ ഇതിനായി വീണ്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രതിരോധങ്ങളെ നിർവചിക്കാം നിങ്ങൾ ഇൻപുട്ടിനെ ബന്ധിപ്പിക്കുന്ന രണ്ട് ടെർമിനലുകൾക്കിടയിലാണ് ഇൻപുട്ട് പ്രതിരോധം നിങ്ങൾ ലോഡ് ബന്ധിപ്പിക്കുന്ന രണ്ട് ടെർമിനലുകൾക്കിടയിലാണ് ഔട്ട്പുട്ട് പ്രതിരോധം അതിനാൽ ഇത് Rout ആണ് ഇത് Rin ആണ് തീർച്ചയായും ഇവിടെ ഇത് ഒരു ടെർമിനൽ മാത്രം മുറിക്കുന്നു ഇങ്ങനെയുള്ളപ്പോൾ അതിന്റെ മറ്റേ ടെർമിനൽ ഗ്രൌണ്ട് ആണെന്ന് അനുമാനിക്കുന്നു അതുപോലെ ഇവിടെയും ഇത് ഗ്രൌണ്ടിനും ടെർമിനലിനും ഇടയിലാണ് പതിവുപോലെ സിഗ്നൽ ഫ്രീക്വെൻസി നിശ്ചിത മൂല്യത്തിന് മുകളിലാണെന്നും ആ ഫ്രീക്വെൻസിയിൽ C1 ഉം C2 ഉം ഷോർട്ട് സർക്യൂട്ട് ആണെന്നും നമ്മൾ അനുമാനിക്കും അതിനാൽ ഇതിന് തുല്യമായ സ്മോൾ സിഗ്നൽ ഞാൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായി അറിയാം ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ നമുക്ക് R1 R2 ഉണ്ടാകും VGS ആണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നമുക്ക് RD RL ഉണ്ട് ഒപ്പം ഇൻപുട്ട് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇൻപുട്ട് പ്രതിരോധത്തിനായി നമ്മൾ ചെയ്യുന്നത് സോഴ്സ് നീക്കംചെയ്യലാണ് Rs സോഴ്സിന്റെ ഭാഗമാണെന്ന് ഓർമ്മിക്കുക നമ്മൾ അത് നീക്കം ചെയ്യുകയും ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ നോക്കുകയും ചെയ്യുന്നു അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ Vtest പ്രയോഗിക്കുന്നു Itest ന്റെ മൂല്യം കണക്കാക്കുക ഇൻപുട്ട് റെസിസ്റ്റൻസ് VtestItestആയിരിക്കും ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് കണക്കാക്കാം ഇത് R1 || R2 നു തുല്യമാണെന്ന് കാണാൻ വളരെ എളുപ്പമാണ് വാസ്തവത്തിൽ ലോഡ് പ്രതിരോധം ഇൻപുട്ട് പ്രതിരോധത്തെ ബാധിക്കാത്ത സാഹചര്യമാണിത് പൊതുവെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നപ്പോൾ കോമൺ സോഴ്സ് ആംപ്ലിഫയർ അതിനു ചുറ്റും നിർമ്മിക്കുകയും ചെയ്തു ഇൻപുട്ട് പ്രതിരോധത്തെ RL ബാധിച്ചതായി നിങ്ങൾ കണ്ടു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അതിനാൽ ഇൻപുട്ട് പ്രതിരോധം വെറും R1 || R2 ആണ് എന്നാൽ തൊട്ടുമുമ്പത്തേ പോലെ നിങ്ങൾ കൺസ്ട്രെയിന്റ് C1 വിലയിരുത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് Rs ഉണ്ടാകും നിങ്ങൾക്ക് ആ സർക്യൂട്ടിന്റെ Rin ഉണ്ടാകും കൂടാതെ C1 ≫1 0Rs Rin ആണ് ഇതാണ് കൺസ്ട്രെയിന്റ് ഇപ്പോൾ ഔട്ട്പുട്ട് പ്രതിരോധത്തിലേക്ക് വന്നാൽ ലോഡ് കണക്റ്റുചെയ്തിരിക്കുന്ന പോയിന്റുകൾക്കിടയിൽ നമ്മൾ അത് അളക്കുന്നു നമ്മൾ Vtest കൊടുത്ത് Itest അളക്കുന്നു സോഴ്സ് വോൾട്ടേജ് Vs പൂജ്യമായി സെറ്റ് ചെയ്തിരിക്കും അതിനർഥം ഇത് ഷോർട്ട് സർക്യൂട്ട് ആക്കിയിട്ടുണ്ടാകും വീണ്ടും ഈ കണക്കുകൂട്ടൽ വളരെ എളുപ്പമാണ് ഇത് ഇവിടെ ഇത് പൂജ്യമായതിനാൽ ഈ VGS തന്നെ പൂജ്യമാണ് കാരണം ഈ വോൾട്ടേജ് VGS മൂന്ന് റെസിസ്റ്ററുകളുടെ സമാന്തര കോമ്പിനേഷനുകൾക്ക് കുറുകേ പ്രത്യക്ഷപ്പെടുന്നു കൂടാതെ പൂജ്യമല്ലാത്ത VGS അവിടെ ഉണ്ടെങ്കിൽ ഈ കറൻറിന് ഒഴുകാൻ ഒരു വഴിയുമില്ല ഗേറ്റ് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ VGS പൂജ്യത്തിന് തുല്യമായിരിക്കും അതായത് ഈ കറൻറ് സോഴ്സ് gmVGS ഉം പൂജ്യമാണ് അതായത് ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി മാറുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ Itest കണക്കാക്കാനും അനുപാതം VtestItest എടുക്കാനും കഴിയും ഇത് വളരെ എളുപ്പമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന പ്രതിരോധം RD ആയിരിക്കും എന്ന് നിങ്ങൾ ഉടനെ കാണും Rout RD ക്ക് തുല്യമാണ് ഫിക്സ്ഡ് VGS ബയാസ് ഉള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയറിന് ഇത് വളരെ എളുപ്പമാണ് ഇപ്പോൾ സാധാരണയായി ഇതുപോലുള്ള ഒരു ആംപ്ലിഫയറിൽ ഇൻപുട്ട് പ്രതിരോധം കഴിയുന്നത്ര ഉയർന്നതായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പിന്നെ എന്താണ് സംഭവിക്കുകയെന്നാൽ സോഴ്സ് റെസിസ്റ്റൻസ് Rs നും ഇൻപുട്ട് റെസിസ്റ്റൻസിനും തമ്മിൽ യാതൊരു വോൾട്ടേജ് ഡിവിഷനും ഉണ്ടാകില്ല എന്നതാണ് എന്നാൽ ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉള്ള ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ കാര്യത്തിലെ പോലെ കപ്പാസിറ്റർ C2 ലെ കൺസ്ട്രെയിൻറ് C2 ≫1 0Rout RL ആയിരിക്കും നിങ്ങൾ C2 നോക്കിയാൽ ഈ വശത്ത് നിങ്ങൾക്ക് RL ഉണ്ടാകും തിരിഞ്ഞുനോക്കുമ്പോൾ Rout എന്താണോ അതുണ്ടാകും ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രതിരോധങ്ങളുടെ ആശയങ്ങൾ നിർവചിക്കുന്നതിന് മുമ്പുതന്നെ നമ്മൾ മുമ്പ് വിലയിരുത്തിയ വ്യവസ്ഥകളുമായി ഇത് പൊരുത്തപ്പെടുന്നു ഇൻപുട്ടും ഔട്ട്പുട്ട് പ്രതിരോധവും മിക്കവാറും എല്ലാ സർക്യൂട്ടിനും നിങ്ങൾ കണക്കാക്കുന്ന അളവുകളാണ് കാരണം അവ പാരാമീറ്റേഴ്സ് ഓഫ് ഇന്റെറെസ്റ്റ് ആണ് ഇപ്പോൾ ഇൻപുട്ട് പ്രതിരോധം കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് ഉചിതമായ ലോഡ് പ്രതിരോധം ഉണ്ടായിരിക്കണം എന്നത് ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യമാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ ഔട്ട്പുട്ട് പ്രതിരോധം കണക്കാക്കുമ്പോൾ സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് സോഴ്സ് റെസിസ്റ്റൻസിനെ ആശ്രയിച്ചിരിക്കുന്നു